എഡ്ജ് ബേസ്ഡ് അഥവാ വെക്ടർ 2D ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് നെ കുറിച്ചുള്ള ചർച്ച നമുക്ക് തുടരാം ടോട്ടൽ ഫീൽഡ് അജ്ഞാതമായി കൊണ്ട് ഒരു പ്രശ്നം എങ്ങനെ രൂപീകരിക്കേണ്ടത് എന്നിനെ കുറിച്ചുള്ള തികച്ചും സ്വഭാവികമായ ഒരു മെത്തേഡ് ആണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലേക്കേണ്ടത്ബൌണ്ടറി കണ്ടിഷൻ പ്രയോഗിക്കുമ്പോൾ ഞാൻ ഇൻസിഡന്റ് ഫീൽഡ് കൂട്ടുകയും കുറക്കുകയും ചെയ്തിട്ട് ബൌണ്ടറി കണ്ടിഷൻ സ്കാറ്റെർഡ് ഫീൽഡ് ടെർമിൽ പ്രയോഗിക്കണം എന്നതാണ് അങ്ങനെ വലതു വശത്തു വന്ന രണ്ട് ടെർമ്സിൽ ഒന്ന് അവിടെ നിലനിൽക്കുന്നു അത് അറിയാവുന്ന വിവരം ആണ് രണ്ടാമത്തേത് പിൻവശത്തേക്ക് മാറുകയാണ് അത്കൊണ്ട് ഈ പ്രശ്നം രൂപീകരിക്കുന്ന മറ്റൊരു വഴിയെ ആണ് സ്കാറ്റെർഡ് ഫീൽഡ് ഫോർമുലേഷൻ എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് പരിഗണിക്കേണ്ടത് ഇതാണ് ഇവിടെ വാരിയബിൾ ഓഫ് ഇന്റെറെസ്റ്റ് സ്കാറ്റെർഡ് ഫീൽഡ് ആണ് നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു ഏത് തരത്തിലുള്ള കമ്പ്യൂറ്റേഷണൽ ഡോമെയിൻ നെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് ഇനി നമുക്ക് കുറച്ചു കൂടി സവിശേഷമായ കാര്യങ്ങളിലേക്ക് കടക്കാം ഉദാഹരണത്തിന് ഇവിടെയുള്ള ഫോർമുലേഷൻസ് നോക്കിയാൽ ഇതാണ് എനിക്ക് കിട്ടിയ റൈറ്റ് ഹാൻഡ് സൈഡ് ടെർമ് ഇതാണ് മുഴുവൻ ഡോമെയിനും ഉൾകൊള്ളുന്ന അതിർത്തി അത് കൊണ്ട് തന്നെ ഒബ്ജെക്ട് ന്റെ സ്ഥാനത്തെ കുറിച്ചു വീണ്ടും ചോദിക്കേണ്ട കാര്യം ഇല്ല സ്കാറ്റെർഡ് ഫീൽഡ് ഫോർമുലേഷൻ നിൽ പ്രശ്നത്തിന് ഒരു ചെറിയ മാറ്റം വരുന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം നമുക്ക് നമ്മുടെ ഡോമെയിൻ നെ ഇങ്ങനെ എടുക്കാം ഇതാണ് ഒരു ഒബ്ജക്റ്റ് ഇവിടെ കാണുന്ന നൊട്ടേഷൻ ഏറ്റവും പുറത്തുള്ള അതിർത്തി ആണ് ആണ് ഒബ്ജക്റ്റ് അങ്ങനെ നമുക്ക് ഇതിനെ എന്നും എന്നും വിളിക്കാം അപ്പോൾ രണ്ട് ഡോമെയിൻ നും കൂടിചേർന്നതാണ് ഡോമെയിൻ വിദ്യാർത്ഥി സർ ആണ് ഡോമെയിൻ എങ്കിൽ എന്താണ് ആണ് ഏറ്റവും പുറത്തുള്ള അതിർത്തി ആണ് ഒബ്ജക്റ്റ് ന്റെ അതിർത്തി വിദ്യാർത്ഥി എന്താണ് ഒബ്ജക്റ്റ് നെ ഉൾകൊള്ളാത്ത ഡോമെയിൻ ന്റെ ഭാഗമാണ് ഉദാഹരണമായി ഈ ഒബ്ജക്റ്റ് ഒരു വായുവിനാൽ ചുറ്റപ്പെട്ട ഒരു എയർക്രാഫ്റ്റ്ആണെന്ന് വിചാരിച്ചാൽ വായുവും ഒബ്ജക്റ്റും ആണ് ഒന്ന് കൂടി വ്യക്തമാക്കിയാൽ ഞാൻ ഇതിനെ ഇന്റർസക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നൾ സെറ്റ് ഇതിൽ നിന്നും ഇവിടെ ഇന്റർസക്ഷൻ ഇല്ലെന്ന് വ്യക്തമാണ് ഞാൻ ഡോമെയിൻ നെ രണ്ട് ഭിന്നമായ അതിർത്തികളായി തരം തിരിചിരിക്കുന്നു ഈ രണ്ട് ഭിന്ന മേഖലകൾക്കും കൂടിയുള്ള പൊതുവായ അതിർത്തി ആണ് ഈ കാര്യങ്ങളിൽ ഇനി ഒരു ആശയകുഴപ്പവും വേണ്ട അങ്ങനെ ഈ ഡോമെയിൻ നെ രണ്ട് ഭാഗങ്ങൾ ആയി വിഭജിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഒമേഘ തൊട്ട് തുടങ്ങാം അങ്ങനെ തൊട്ട് തുടങ്ങുമ്പോൾ എനിക്ക് മാക്സ്വെൽസ് ഇക്വാഷൻ Maxwells equations ലേക്ക് തിരിച്ചു പോകേണ്ടി വരും മാത്രമല്ല വീക് ഫോംസ് ന് വേണ്ടി ചെയ്ത സ്റ്റെപ്സ് ആവർത്തിക്കേണ്ടി യും വരും ഇവിടെ വ്യത്യാസം എന്താണ് ഉണ്ടാവുക നേരത്തെ വലതു വശത്തു ഒരു ലൈൻ ഇന്റഗ്രൽ അഥവാ കോണ്ടർ ഇന്റഗ്രൽവരുന്ന സ്ഥലത്ത് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും നമുക്ക് ഒന്ന് കൂടി പുറകിലേക്ക് പോയി ഓർമ പുതുക്കാം ഞാൻ വീക് ഫോംഇവിടെ എഴുതിയപ്പോൾ ഒരു ടെർമ് വലതു വശത്തു കിട്ടി പക്ഷെ ഈ പച്ച കേസ് ഇവിടെ വരികയാണെങ്കിൽ അവിടെ 2 ഇന്റഗ്രൽസ് ഉണ്ടാവും അത് കൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ചു സൂചിപ്പിച്ചത് ഇത് ഡൈവർജൻസ് തിയറിയിലെ ലളിതമായ പ്രത്യാഘാതം ആണ് അതിർത്തികളിലും ക്ലോസിങ് റീജിയൻസിലും ഇത്രയും ലൈൻ ഇന്റഗ്രൽസ്ഉണ്ടാവാൻ കാരണം ഡൈവർജൻസ് തിയറിയിലെ പ്രിൻസിപിൾ ആയ ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ് അങ്ങനെ അത്രയും ലൈൻ ഇന്റഗ്രൽസ് അഥവാ കോണ്ടർ ഇന്റഗ്രൽസ് അവിടെ ഉണ്ടാവും സ്കാറ്റെർഡ് ഫീൽഡ് ഫോർമേഷനിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് വ്യത്യസ്തമായ വീക് ഫോംസ് എഴുതും ഓരോ റീജിയൻ നും ഓരോന്ന് ഈ ടോട്ടൽ ഫീൽഡുംസ്കാറ്റെർഡ് ഫീൽഡ് ഫോർമുലേഷനും എലെക്ട്രോമാഗ്നെറ്റിക്സിലെ മറ്റു പല മെത്തേഡ്സ് ന്റെയും പൊതുസ്വഭാവം ആണ് നമുക്ക് വീണ്ടും ഫൈനൈറ്റ് ഡിഫറെൻസ് ടൈം ഡോമെയിൻ ലേക്ക് കടക്കാം ഇത് യഥാർത്ഥത്തിൽ ഫൈനൈറ്റ് എലമെന്റ് ന് മാത്രം ഉള്ളതല്ല ഒരു പൊതു തത്വം ആണ് അത്കൊണ്ട് ഒമേഘ കൊണ്ട് തുടങ്ങുമ്പോൾ ഇതാണ് കിട്ടുന്ന രണ്ട് വ്യത്യസ്തമായ ഇന്റഗ്രൽസ്ഈ രണ്ട് ഇന്റഗ്രൽസിനും ഉള്ള ഇന്റഗ്രൻഡ് ഒന്ന് തന്നെയാണ് അതിനാൽ ഞാൻ ഇത് ഒരു തവണയേ എഴുതുന്നുള്ളു ഇവിടെ രണ്ട് വ്യത്യസ്ത കോണ്ടർ ഇന്റഗ്രൽസ്ഉള്ളത് വ്യക്തമായല്ലോ ഞാൻ തിരെഞ്ഞെടുത്ത വാരിയബിൾ ഓഫ് ഇന്റെറെസ്റ്റ്സ്കാറ്റെർഡ് ഫീൽഡ്ആണല്ലോ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട അതായത് ഞാൻ എവിടെ H എന്ന് എഴുതിയാലും ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കാറ്റെർഡ് ഫീൽഡ് എന്നാണ് വിദ്യാർത്ഥി സർ രണ്ട് കേസിലും ടെസ്റ്റിംഗ് ഫങ്ക്ഷൻ ഒന്ന് തന്നെയാണോ ഏതാണ് രണ്ട് കേസുകൾ ഇത് വരെ ഒന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അതായത് ടെസ്റ്റിംഗ് ഫങ്ക്ഷന്റെ രീതി എന്താണെന്നാണല്ലോ ചോദ്യം ടെസ്റ്റിംഗ് ഫങ്ക്ഷൻ ഒന്ന് തന്നെയാണ് കാരണം സ്കാറ്റെർഡ് ഫീൽഡ് ആണ് എന്റെ വാരിയബിൾ എങ്കിലും ഒരേ പ്രവർത്തനത്തെ അടിസ്ഥാനം ആക്കിയാണ് ഞാൻ അറിയപ്പെടാത്തതിനെ വികസിപ്പിച്ചെടുക്കാൻ പോകുന്നത് അടിസ്ഥാന പ്രവർത്തനം ഒന്ന് തന്നെയാണ് മുമ്പ് ഞാൻ ചെയ്തത് എന്ത് തന്നെ ആയാലും ടെസ്റ്റിംഗ് ഫങ്ക്ഷൻ അത് തന്നെ തുടരും അത്കൊണ്ട് ഇവിടെ ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല ഈ പ്രശ്നങ്ങൾ എവിടെ ആണെന്നും എവിടെയാണ് ഉണ്ടാകുന്നതെന്നും ബൌണ്ടറി ടെർമിന്റെ പശ്ചാത്തലത്തിൽ അത് എങ്ങനെ മനസ്സിലാക്കണം എന്നുമുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് അടുത്ത റിവിഷനിലേക്ക് കടക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും അടുത്തതായി പറയുന്നത് നെ കുറിച്ചാണ് ഞാൻ വ്യത്യസ്തമായ രണ്ട് വീക് ഫോംസ് എഴുതുകയാണ് ഇടത് വശത്തു എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്കാറ്റെർഡ് ഫീൽഡിന്റെ ഭൌതികമായ അർഥം എന്താണെന്ന് മനസ്സിലാക്കണം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒബ്ജക്റ്റ് നെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ സ്കാറ്റെർഡ് ഫീൽഡും ഉണ്ടാകുമായിരുന്നില്ല ഇവിടെ നിൽക്കുന്ന ഒരു നിരീക്ഷകന് എന്താണ് മനസ്സിലാവുക അയാൾ ഇൻസിഡന്റ് ഫീൽഡ് ലേക്ക് നോക്കിയിട്ട് ഒബ്ജക്റ്റ് ഉള്ളത്തിനെയും ഇല്ലാത്തതിനെയും താരതമ്യം ചെയ്യുന്നു അങ്ങനെയാണ് അയാൾ സ്കാറ്റെർഡ് ഫീൽഡ് ന്റെ ഭൌതികമായ അർഥത്തിലേക്ക് ചെന്നെത്തുന്നത് ഇനി നിരീക്ഷകൻ ഒബ്ജക്റ്റ് ന്റെ ഉള്ളിൽ നിൽക്കുക യാണെന്ന് കരുതുക എങ്കിൽ സ്കാറ്റെർഡ് ഫീൽഡ് നെ കുറിച്ചു പറയുന്നതിൽ എന്തെങ്കിലും അർഥമുണ്ടോ ഗണിതശാസ്ത്രപരമായി ഞാൻ സ്കാറ്റെർഡ് ഫീൽഡിനെ നിർവചിക്കുന്നത് ടോട്ടൽ മൈനസ് ഇൻസിഡന്റ് ആയിട്ടാണ് ഇൻസിഡന്റിന്റെ അനലിറ്റിക്കൽ ഫോം പറയാൻ എനിക്ക് കഴിയും പക്ഷെ ഒബ്ജക്റ്റ് ന്റെ ഉള്ളിൽ നിരീക്ഷകൻ നിൽക്കുമ്പോൾ അതിനു ഒരു അർഥവുമില്ല ഈ അവസ്ഥയിൽ സ്കാറ്റെർഡ് ഫീൽഡിന് ഭൌതികമായ ഒരു അർഥം നിർവചിക്കാൻ കഴിയില്ല അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഒരു പ്രശനവും ഇല്ല ഞാൻ ഒബ്ജക്റ്റ് ന്റെ ഉള്ളിൽ ആണെങ്കിൽ അവിടെ ഒരു കേസ് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ഒബ്ജക്റ്റ് ന്റെ പുറത്താണെങ്കിൽ രണ്ട് കേസുകൾ ഉണ്ടാവും ഒബ്ജക്റ്റ് ഉള്ളതും ഇല്ലാത്തതും അപ്പോൾ ഇൻസിഡന്റും ടോട്ടലും താരതമ്യം ചെയ്യാൻ എനിക്ക് കഴിയും പക്ഷെ ഒരിക്കൽ ഞാൻ ഒബ്ജക്റ്റ് ന്റെ ഉള്ളിൽ ആയി കഴിഞ്ഞാൽ സ്കാറ്റെർഡ് ഫീൽഡും ഇൻസിഡന്റ് ഫീൽഡും തമ്മിൽ വേർതിരിച്ചു കാണുന്നതിൽ അർഥമില്ല അങ്ങനെ ഒബ്ജക്റ്റ് ന്റെ ഉള്ളിൽ ആണെങ്കിൽ ടോട്ടൽ ഫീൽഡിനെ തന്നെ വാരിയബിൾ ഓഫ് ഇന്റെറെസ്റ്റ് ആയി കണക്കാക്കാം വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇൻസിഡന്റ് ഫീൽഡ്ഫ്രീ സ്പേസിൽ മാക്സ്വെൽസ് ഇക്വെഷൻ Maxwells equation അനുസരിക്കുന്നുണ്ടോ ടോട്ടൽ ഫീൽഡ്മാക്സ്വെൽ ഇക്വെഷൻ Maxwells equation അനുസരിക്കുന്നുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം അങ്ങനെ എങ്കിൽ സ്കാറ്റെർഡ് ഫീൽഡ് സൂപ്പർപൊസിഷൻ തത്വം ത്തെ അനുസരിക്കും അങ്ങനെ ആണ് ഞാൻ അവസാനം മാക്സ്വെൽ ഇക്വെഷൻ Maxwells equation നിൽ ചെന്നെത്തിയത് കാരണം ഇൻസിഡന്റ് ഫീൽഡും ടോട്ടൽ ഫീൽഡും മാക്സ്വെൽ ഇക്വെഷൻ Maxwells equation അനുസരിക്കുന്നത് കൊണ്ടാണ് സ്കാറ്റെർഡ് ഫീൽഡും അനുസരിക്കുന്നത് ഇനി ഞാൻ ഒബ്ജക്റ്റ് ന്റെ ഉള്ളിൽ ആണെങ്കിൽ സ്കാറ്റെർഡ് ഫീൽഡ് മാക്സ്വെൽ ഇക്വാഷൻ Maxwells equation അനുസരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഇല്ല കാരണം അവിടെ ഇൻസിഡന്റ് ഫീൽഡ് മാക്സ്വെൽസ് ഇക്വാഷൻ Maxwells equation അനുസരിക്കുന്നില്ല അതായത് ഫ്രീ സ്പേസിൽ പ്ലേൻ വേവ് സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ ഫോം വാക്വമ് വേവ് നമ്പർ ഇപ്പോൾ ഇതിലേക്ക് ഒരു ഒബ്ജക്റ്റ് ഇടുകയാണെങ്കിൽ പ്ലേൻ വേവിന്റെ ഫോം അതെപോലെ തുടരുമോ ഉദാഹരണമായി k മാറും മീഡിയത്തിലെ വേവ് നമ്പറും മാറും വേവ് ലെങ്ത്തും മാറും പക്ഷെ ഫ്രീക്ൻസി അത് പോലെ നിൽക്കും സ്പീഡ് മാറുമ്പോൾ വേവ് ലെങ്ത്തും മാരുമെന്ന് നമുക്ക് അറിയാം അത് കൊണ്ട് മീഡിയത്തിന്റെ ഉള്ളിൽ ഇൻസിഡന്റ് ഫീൽഡ് മാക്സ്വെൽസ് ഇക്വാഷൻ Maxwells equation ന് ഒരു സൊല്യൂഷനും ഇല്ല വിദ്യാർത്ഥി ഇക്വാഷൻ മാറ്റിയാലോ നമുക്ക് നോക്കാം 1D കേസ് ശരിയാണ് അപ്പോൾ മീഡിയത്തിന്റെ പുറത്ത് മാക്സ്വെൽ ഇക്വാഷൻ Maxwells equation എന്തായിരിക്കും ആണ് ഇതാണ് വാക്വമ് ഇതിൽ നിന്നാണ് എനിക്ക് ന്റെ സൊല്യൂഷൻ കിട്ടിയത് അപ്പോൾ മീഡിയത്തിന്റെ അകത്തു നിൽക്കുന്ന അവസ്ഥ യിൽ ഇത് പരിഹാരം ആകുമോ എന്താണ് ഇടത് വശത്തു സംഭവിക്കുന്നത് K ൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ ഇത് ആയിട്ട് മാറും ഇത് സമം ആകുന്നത് ആകുമ്പോഴാണ് അതിന്റെ അർഥം അവിടെ ഒബ്ജക്റ്റ് ഇല്ലെന്നാണ് അതായത് ഇൻസിഡന്റ് ഫീൽഡ് മാക്സ്വെൽസ് ഇക്വാഷൻ Maxwells equation അനുസരിക്കുന്നില്ലെങ്കിൽ എന്താണ് മീഡിയത്തിൽ മാക്സ്വെൽസ് ഇക്വാഷൻ Maxwells equation അനുസരിക്കുന്നത് വിദ്യാർത്ഥി അത്കൊണ്ടാണ് ഒബ്ജക്റ്റ് ന്റെ ഉള്ളിൽ ആണെങ്കിൽ ടോട്ടൽ ഫീൽഡ് നെ ഇൻസിഡന്റ് ഫീൽഡും സ്കാറ്റെർഡ് ഫീൽഡുമായി വിഭജിക്കുന്നതിൽ അർഥം ഇല്ല എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ന്റെ ഉള്ളിൽ ഒരു ഫീൽഡ് ഉണ്ട് എന്നതാണ് ഈ ഇക്വാഷൻ ന്റെ സൊല്യൂഷൻ സിമ്പിൾ ID ഉദാഹരണം ഇതിന് തെളിവ് തരുന്നു ഇവിടെ വാരിയബിൾ ആണ് എന്നാൽ ഞാൻ Hആണ് വാരിയബിൾ ആയി എടുക്കുന്നത് മാക്സ്വെൽസ് ഇക്വാഷൻ Maxwells equationനിൽ നിന്നാണ് ഞാൻ ഈ ഇക്വാഷൻ ഉത്ഭവിപ്പിക്കാൻ തുടങ്ങിയത് ഏത് വാരിയബിൾ ഞാൻ എടുത്താലും മാക്സ്വെൽസ് ഇക്വാഷൻ Maxwells equationന് അനുയോജ്യമായിരിക്കണം മാക്സ്വെൽസ് ഇക്വാഷൻ Maxwells equationഅനുയോജ്യമല്ലെങ്കിൽ എനിക്ക് ഇവിടെ എത്താൻ കഴിയുമായിരുന്നില്ല ഇപ്പോൾ എന്താണ് കാണുന്നത് ഇടത് വശം അത് പോലെ നിലനിൽക്കുന്നു ഇല്ലെന്നത് മാത്രമാണ് വ്യത്യാസം ന്റെ സ്ഥാനത് H ആണ് ഈ വെക്ടർടു ഡൈമെൻഷണൽ ആണ് അത് dxdy ആകാം അത് കൊണ്ടാണ് ഞാൻ rന്റെ മുകളിൽ ഒരു വെക്ടർ ഇട്ടത് ഇപ്പോൾ വലതു വശത്തു എന്താണ് സംഭവിക്കുന്നത് അവിടെ എത്ര ടെർമ്സ് ഉണ്ടാവും ഒരു ടെർമ് മാത്രം വിദ്യാർത്ഥി ഇപ്പോൾ ഇവിടെ രണ്ട് വ്യത്യസ്തമായ ഇക്വാഷൻ സെട്സ് ഉണ്ട് ഇത് രണ്ടും എങ്ങനെ കൂട്ടിചേർക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതെങ്ങനെ ചെയ്യാം എന്നാണ് നിങ്ങൾ കരുതുന്നത് ഇൻസിഡന്റ് എവിടെ ആയിരിക്കും ഇതുവരെ ഇൻസിഡന്റ് ഫീൽഡ് ന്റെ ഒരു സൂചനയും എനിക്ക് കിട്ടിയിട്ടില്ല അതിർത്തിയിലാണ് ഇൻസിഡന്റ് ഫീൽഡ് വരേണ്ടത് ഇവിടെ രണ്ട് അതിർത്തികൾ ഉണ്ട് അതിൽ ഏതിലാണ് ഇൻസിഡന്റ് ഫീൽഡ് വരേണ്ടത് പക്ഷെ ഇക്വാഷനിൽ ഇതുവരെ കണ്ടില്ല അത് കൊണ്ട് ഓരോന്നായി നമുക്ക് നോക്കാം ഇക്വാഷൻ 1ൽ വലത് വശത്തു രണ്ട് ടെർമ്സ് കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ഏകദേശം അഥവാ ഏത് ബൌണ്ടറി കണ്ടിഷൻസ് ആണ് പ്രയോഗിക്കേണ്ടത് വിദ്യാർത്ഥി ശരി ഇത് ഇ ക്രോസ്സ് ആണെന്ന് കരുതുക Ok ഇത് വെച്ചിട്ട് നമുക്ക് ചില ആൾജിബ്രിക് മാനുപുലേഷൻസ് ചെയ്യേണ്ടി വരും വിദ്യാർത്ഥി ഒരു ബൌണ്ടറി കണ്ടിഷൻ അതെ വലത് വശത്തു ഒരു ബൌണ്ടറി കണ്ടിഷൻ പ്രയോഗിക്കേണ്ടതുണ്ട് പക്ഷെ അവിടെ ഇക്വാഷൻഒന്നിൽ വലത് വശത്തു രണ്ട് ടെർമ് സ് ഉണ്ട് ഓരോ ബൌണ്ടറി യിൽ നിന്നും ഓരോന്ന് അപ്പോൾ ഒന്നാമത്തെ ടെർമ് ന് ഏത് ബൌണ്ടറി കണ്ടിഷൻ ആണ് വേണ്ടത് റേഡിയേഷൻ ബൌണ്ടറി കണ്ടിഷൻ ഇവിടെ പ്രായോഗിക്കാൻ പറ്റുമോ ഒന്നാമത്തെ ടെർമ്ന് ഇത് ഒരു സ്കാറ്റെർഡ് ഫീൽഡ് ആണോ അതായത് വാരിയബിൾ എഡ്ജിൽ പ്രത്യക്ഷമാവുന്ന സ്കാറ്റെർഡ് ഫീൽഡ് ആണോ ഒന്നാമത്തെ ഇക്വാഷൻ വിദ്യാർത്ഥി അതെ ഇത് റേഡിയേഷൻ കണ്ടിഷൻഅനുസരിക്കുന്നുണ്ടോ ബൌണ്ടറി ഗാമ്മ എന്ന് പറയുന്നത് ഗണിതശാസ്ത്രപരമായി ഒരു സങ്കല്പിക ബൌണ്ടറി ആണ് അതിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതിനാൽ ഇത് പ്രയോഗിക്കുന്ന സ്വഭാവികമായ സ്ഥലം ഇതാണ് വിദ്യാർത്ഥി ശരിയാണ് ടെർമ് ഒന്നിൽ റേഡിയേഷൻ ബൌണ്ടറി കണ്ടിഷൻ പ്രയോഗിക്കുന്നത് എന്ന ഫോമിൽ എത്തുന്നതിനാണ് എല്ലായിടത്തും ഫീൽഡ്സ് എത്തിക്കണം വിദ്യാർത്ഥി ഇതാണ് ബൌണ്ടറി കണ്ടിഷൻ നമ്മൾ അതാണ് ചെയ്യുന്നത് നമ്മൾ a യിലേക്ക് എത്താൻ ആണ് ശ്രമിക്കുന്നത് Axb എന്നത് അറിയാം b എന്താണെന്നും അറിയാം അതിനാൽ xകണ്ടുപിടിക്കാൻ പറ്റും അതായത് xവെക്ടർ അറിയപ്പെടാത്ത കാര്യങ്ങൾ ഉൾകൊള്ളുന്ന വെക്ടർ നമ്മൾ വിഭജിക്കുന്നു ഇത് രണ്ടിന്റെയും ഇടയിൽ സമാനതയുണ്ട് ഒന്നാമത്തെ ടെർമ് എടുത്താൽ RBC പ്രയോഗിക്കാം ടോട്ടൽ ഫീൽഡ് ലെ പോലെ തന്നെ ഇതിനകത്തു ഇൻസിഡന്റ് ഫീൽഡ് പ്രത്യക്ഷമാവുമോ ആ ടെർമിൽ ഞാൻ റേഡിയേഷൻ ബൌണ്ടറി കണ്ടിഷൻ പ്രയോഗിച്ചപ്പോൾ അതിനെ രണ്ടായി വിഭജിച്ചു വലതു വശത്തു ഇൻസിഡന്റ് ഫീൽഡ് പ്രത്യക്ഷപ്പെട്ടു അത് ഇവിടെയും സംഭവിക്കുമോ ഇൻസിഡന്റ് ഫീൽഡ് ഇവിടെ വരില്ല കാരണം അത് സ്കാറ്റെർഡ് ഫീൽഡ് ആണ് അതിൽ നിന്നും ഒന്നും കുറക്കാനില്ല എന്റെ വാരിയബിൾ ഇവിടെ സ്കാറ്റെർഡ് ഫീൽഡ് ആയത് കൊണ്ട് അതിൽ നിന്ന് ഒന്നും കുറയ്ക്കേണ്ടതില്ല അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതാണ് ഇതാണ് ഇവിടെ നാം പ്രയോഗിക്കുന്ന ലോജിക് ഈ ടെർമ് ഈ ടെർമ് ആയി തന്നെ മാറും അത് അവിടെ തന്നെ ഉണ്ട് ഇനി രണ്ടാമത്തെ ടെർമിനെ കുറിച്ച് ആലോചിക്കാം ഏതെങ്കിലും പ്രത്യേക ബൌണ്ടറി കണ്ടിഷൻ അവിടെ പ്രയോഗിക്കാൻ പറ്റുമോ ഉത്തരം പറ്റില്ല എന്നാണ് അത്കൊണ്ട് അതിനെ അങ്ങനെ തന്നെ വിട്ടേക്കാം അതിനാൽ രണ്ടാമത്തെ ടെർമും രണ്ടാമത്തെ ഇക്വാഷനിലെ വലതു വശവും ഒരേ ബൌണ്ടറി ആണ് കൈകാര്യം ചെയ്യുന്നത് ഇവയെ ഇങ്ങനെ തന്നെ നിലനിർത്താം എങ്ങനെ ഞാൻ അവിടെ എന്ന് കുറച്ചു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി അടുത്ത പ്രധാന ചോദ്യം ഇൻസിഡന്റ് ഫീൽഡ് ന് എന്ത് സംഭവിച്ചു എന്നതാണ് ഈ ഇക്വാഷൻസ് സിസ്റ്റത്തിനുള്ളിൽ എവിടെയാണ് ഇൻസിഡന്റ് ഫീൽഡ് പ്രത്യക്ഷപ്പെടുന്നത് ടോട്ടൽ ഫീൽഡ് ന്റെ ടെർമ്സിൽ ഒന്നാമത്തെ ഇക്വാഷൻ എഴുതാൻ പറ്റും അതാണ് ടോട്ടൽ ഫീൽഡ് ഫോർമുലേഷൻ നേരത്തെ നമ്മൾ ചെയ്തത് ഇത് തന്നെയാണ് പക്ഷെ സ്കാറ്റെർഡ് ഫീൽഡ് ഫോർമുലേഷനിൽ വാരിയബിൾ ഓഫ് ഇന്റെറെസ്റ്റ് സ്കാറ്റെർഡ് ഫീൽഡ് ആയിരുന്നു ഇൻസിഡന്റ് ഫീൽഡ് എവിടെ പോയി മറഞ്ഞു ശരിക്കും അത് മറഞ്ഞത് തന്നെയാണോ ബൌണ്ടറിയിൽ എവിടെയാണ് ഞാൻ വാരിയബിൾസ് മാറി മാറി പരിശോധിക്കുന്നത് ഇനി ഞാൻ ഒരു പ്രത്യേക ബൌണ്ടറി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് എഴുതേണ്ടത് അവിടെ രണ്ട് ത്രികോണങ്ങൾ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക ഇപ്പോൾ നമുക്ക് ഒരു ത്രികൊണം ഇവിടെ അകത്തു എടുക്കാം ഒരെണ്ണം അവിടെയും എടുക്കാം പുറത്തുള്ള ത്രികോണത്തെ ത്രികോണം 1എന്നും മറ്റേത് ത്രികോണം 2 എന്നും എടുക്കാം ഒന്നാമത്തെ ത്രികോണത്തിൽ ബൌണ്ടറിയുടെ എഡ്ജിലുള്ള വാരിയബിൾ ആണ് ത്രികോണത്തിന്റെ ഉള്ളിലുള്ള വാരിയബിൾ H ആണ് അപ്പോൾ ഒരേ എഡ്ജിൽ രണ്ട് വ്യത്യസ്ത മൂല്യങ്ങൾ കിട്ടും എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം ഇൻസിഡന്റ് ഫീൽഡ് ആണ് ഇനി രണ്ടാമത്തെ ത്രികോണം നോക്കിയാൽ വാരിയബിൾ ആണ് പക്ഷെ ബൌണ്ടറിയിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം ലളിതമായി പറഞ്ഞാൽ ഇൻസിഡന്റ് ഫീൽഡ് ആണ് അത്കൊണ്ട് ഇവിടെ നിന്നും കിട്ടുന്ന മൂന്നാമത്തെ ഇക്വാഷൻ ആണ് ഇതിനെ എങ്ങനെ ആണ് ഇക്വാഷൻ സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത് ഇത് ഒരു നീണ്ടവഴി യാണെങ്കിലും മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇതാണ് അറിയപ്പെടാത്ത വെക്ടർ xന്റെ കള്ളികൾ ഈ x നെ വിഭജിച്ചു ഉം ഉം ആക്കാം അപ്പോൾ ഇത് ൽ നിന്നും മറ്റേത് ൽ നിന്നും ആണെന്ന് നമുക്ക് പറയാം പക്ഷെ പൊതുവായ ചില എഡ്ജെസ് ഉണ്ട് ലളിതമായി പറഞ്ഞാൽ നമുക്ക് ഡബിൾ കൌണ്ടിങ് ചെയ്യാം വാരിയബ്ൾസ് രണ്ടു തവണ കണക്കാക്കാം അപ്പോൾ വാ രിയബ്ൾസ് വ്യത്യസ്തമാണെന്ന് മനസ്സിലാവും ഒരു കേസിൽ അത് സ്കാറ്റെർഡ് ഫീൽഡും മറ്റേതിൽ ഇൻസിഡന്റ് ഫീൽഡും ആണ് മൂന്നാമത്തെ ഇക്വാഷൻ ഉപയോഗിച്ച് ഇന്റർഫേസ് എഡ്ജസിനുള്ള ഒരു സെറ്റ് ഓഫ് ഇക്വാഷൻസ് കിട്ടും ഇവിടെ വലതു വശത്തെ ടെർമ് നോൺ സീറോ ആവും ഇപ്പോൾ ഈ ഇക്വാഷനിൽ നിന്നും എനിക്ക് ഇൻസിഡന്റ് ഫീൽഡ് കിട്ടും